ഇന്ന് അവസാന മൊഡ്യൂൾ അല്ലെങ്കിൽ സീരീസ് ആണ് നമ്മൾ കാണുന്നത് ഹ്രസ്വ പ്രഭാഷണം ആണ് ഇത് വ്യതിരിക്തമായ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു ബ്രെഡ്ബോർഡിനെക്കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ ഈ പ്രത്യേക മൊഡ്യൂളിൽ വ്യത്യസ്ത ഘടകങ്ങളുടെ മൂല്യങ്ങൾ അളക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശരിയാണ് അതിനാൽ ടീച്ചിംഗ് അസിസ്റ്റന്റ് സീതാറാം ഗുപ്തയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ ഘടകങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം നിങ്ങളെ കാണിക്കും കൂടാതെ അദ്ദേഹം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയും അതിനാൽ നമ്മൾ റെസിസ്റ്റർ അളക്കുന്നതിലൂടെ ആരംഭിക്കും കഴിഞ്ഞ ക്ലാസ്ൽ നമ്മൾ കണ്ട റെസിസ്റ്റർ ആണ് ഇത് ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ റെസിസ്റ്ററിന്റെ മൂല്യം എന്താണ് ഇത് എന്റെ കൈയിലുള്ള ഒരു റെസിസ്റ്റർ ആണ് ഇത് അല്ലേ ഇപ്പോൾ ഈ റെസിസ്റ്ററിന്റെ മൂല്യം എന്താണ് അതിനായി ഞാൻ അത് സീതാറാമിന് നൽകും അവൻ പ്രതിരോധം അളക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഈ പ്രത്യേക മൾട്ടിമീറ്ററിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക അദ്ദേഹം എങ്ങനെയാണു പ്രതിരോധം അളക്കുന്നത് അതിനാൽ അവൻ പ്രതിരോധം ഉപയോഗിക്കുന്നുവെന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ശരിയാണ് 20 കിലോ ഓം വരെ അദ്ദേഹം പ്രതിരോധം ആകുന്നതു നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് മൂല്യം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മൂല്യത്തിലും ആരംഭിക്കാൻ കഴിയും നിങ്ങൾക്ക് ഉയർന്ന മൂല്യങ്ങളിലേക്ക് probe വർദ്ധിപ്പിക്കുന്നത് തുടരാം അതിനാൽ ആദ്യം അദ്ദേഹം 20 കിലോ ശ്രമിച്ചു ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ റെസിസ്റ്റർ കാണുമ്പോൾ probes ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ probe കണക്റ്റുചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൈയ്യിൽ എടുക്കാം നിങ്ങൾക്ക് ഇതുപോലെയായി ബന്ധിപ്പിക്കാൻ കഴിയും നിങ്ങൾ ഇത് ഇതുപോലെ ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മൂല്യം ഇവിടെ കാണാൻ കഴിയും അതെ അതിനാൽ നിങ്ങൾ നോക്കുന്ന മൂല്യം എന്താണ് നിങ്ങൾ ഒരു മൂല്യവും നോക്കുന്നില്ല ശരിയാണ് നിങ്ങൾക്ക് ഒരു മൂല്യവും അളക്കാൻ കഴിയില്ലെന്ന് അറിയാമോ ഇപ്പോൾ നമ്മൾ മൂല്യം വർദ്ധിപ്പിക്കുകയാണ് ശരിയാണ് തുടക്കത്തിൽ ഇത് 20 കിലോ ഓം ആയിരുന്നു ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല നമ്മൾ ഇത് വർദ്ധിപ്പിക്കുകയാണ് ശരിയാണ് എന്നിട്ട് നമ്മൾ 40 നോക്കാൻ തുടങ്ങുന്നു 40 എന്താണ് 40 എന്നതു 2000 ത്തിലാണ് അതിനാൽ ഇതിന്റെ മൂല്യം എന്താണ് ഏകദേശം 3 110 കിലോ ഓംസ് ആണെന്നു പറയാം ഈ ചാഞ്ചാട്ടം കാരണം അവൻ കൈകൊണ്ട് പിടിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ കൈകൊണ്ട് പിടിക്കേണ്ടതില്ല നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ബ്രെഡ്ബോർഡ് ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾക്ക് രജിസ്റ്റർ ചേർക്കാനും തുടർന്ന് നിങ്ങൾക്ക് വീണ്ടും പ്രതിരോധം അളക്കാനും കഴിയും അതിനാൽ നിങ്ങൾ ഇതുപോലെ റെസിസ്റ്റർ ചേർക്കുമ്പോൾ നിങ്ങൾ അത് അളക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ മൂല്യം ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ ഏതാണ്ട് സ്ഥിരമാണ് ശരിയാണ് ഇത് ഏതാണ്ട് സ്ഥിരമാണ് നേരത്തെ ഇത് 31 32 പോലെയായിരുന്നു കാരണം അത് അവൻ കൈകൊണ്ട് പിടിച്ചിരുന്നു കണക്ഷൻ ശരിയായിരുന്നില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അത് ഏതാണ്ട് സ്ഥിരമായിരിക്കും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ ബ്രെഡ്ബോർഡ് ഉപയോഗിക്കുന്നു ശരിയാണോ ഇപ്പോൾ നമുക്ക് മറ്റൊരു റെസിസ്റ്ററിലേക്ക് പോകാം അതിനാൽ ഇത് ഞാൻ അദ്ദേഹത്തിന് നൽകുന്ന മറ്റൊരു റെസിസ്റ്ററാണ് അവൻ അത് ബ്രെഡ്ബോർഡിൽ ചേർക്കുന്നു അതിനാൽ നമ്മൾക്ക് എളുപ്പത്തിൽ അറിയാം പക്ഷേ മനസിലാക്കേണ്ടത് പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം മൂല്യം വളരെ കുറവാണെന്ന് നിങ്ങൾ കാണുന്നു അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതിനാൽ നമ്മൾക്ക് താഴേക്ക് പോകാം നമുക്ക് ഇനിയും കാണാൻ കഴിയുമോ അതെ അതിനാൽ ഇത് ഏകദേശം 20 കിലോ ഓം ആണ് അതിനാൽ 2 14 കിലോ ഓം ആണ് ഈ റെസിസ്റ്ററിന്റെ മൂല്യം ശരിയാണ് ഇപ്പോൾ നിങ്ങൾക്കത് അളക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതായത് പ്രതിരോധത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് മഞ്ഞനിറമില്ലാത്ത മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ സമാനമായി അളക്കാൻ എളുപ്പമാണ് ശരിയാണ് വ്യത്യസ്ത തരം ക്രമീകരണങ്ങൾ ആണ് ഉള്ളത് അവസാന മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണിച്ചതുപോലെ ഈ മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് ഇത് റെസിസ്റ്റൻസ് മോഡിൽ സൂക്ഷിക്കാൻ കഴിയും അതിനാൽ ഇതാണ് റെസിസ്റ്റൻസ് ഫ്രീക്വൻസി കപ്പാസിറ്റൻസ് എല്ലാം ഒരേ സ്ഥലത്ത് അളക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ പ്രോബുകൾ ഒരു റെസിസ്റ്ററുമായി ബന്ധിപ്പിക്കുന്നതാണ് വീണ്ടും ഇത് കുറച്ച് മൂല്യം കാണിക്കുന്നു ഇത് യാന്ത്രിക മോഡിലാണ് അതിനാൽ ഇത് യാന്ത്രികമായി റെസിസ്റ്ററിന്റെ പ്രതിരോധം അളക്കും എല്ലാം ശരിയാണ് നിങ്ങൾ മറ്റൊരു റെസിസ്റ്ററിലേക്ക് കണക്റ്റുചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും മറ്റൊരു റെസിസ്റ്റർ കണക്റ്റുചെയ്യുന്നത് നിങ്ങൾ കാണും കൂടാതെ 2 161 ന് അടുത്ത മൂല്യം ലഭിക്കുന്നു മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യതയുണ്ട് എന്നാൽ കൃത്യത മനസിലാക്കാൻ നമ്മൾക്ക് താൽപ്പര്യമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇപ്പോൾ റെസല്യൂഷനല്ല നമ്മൾ നോക്കുന്നത് വ്യത്യസ്ത ഘടകങ്ങൾ അളക്കുന്നതിന് മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അതിനാൽ ഇങ്ങനെയാണ് റെസിസ്റ്ററുകളെ എല്ലാം അളക്കാൻ കഴിയുന്നത് കപ്പാസിറ്ററായ മറ്റൊരു ഭാഗത്തേക്ക് പോകാം ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കപ്പാസിറ്റർ അളക്കാൻ കഴിയുമോ കപ്പാസിറ്റൻസ് മൂല്യമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാമോ ഇല്ല അല്ലേ ഇല്ല കപ്പാസിറ്റൻസ് കാണാൻ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥലവുമില്ല എന്നാൽ ഇതിൽ ഒരു സ്ഥലമുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നഅതേ സ്ഥലം ഒരു റെസിസ്റ്റൻസ് ആണ് ഇത് ഓം ആണ് അതിൽ നിന്നും നിങ്ങൾക്ക് കപ്പാസിറ്റൻസും അളക്കാൻ കഴിയും ശരിയാണ് അതിനാൽ ഞാൻ അവന് ഒരു കപ്പാസിറ്റർ നൽകും അവൻ അത് ബന്ധിപ്പിക്കും അല്ലെങ്കിൽ അദ്ദേഹം അത് ബ്രെഡ്ബോർഡിൽ ഉൾപ്പെടുത്തും തുടർന്ന് മൾട്ടിമീറ്ററിലെ കപ്പാസിറ്റൻസിന്റെ മൂല്യം നിങ്ങൾ കാണും അതിനാൽ മൂല്യം വായിക്കട്ടെ മൂല്യം 10 മൈക്രോഫറാഡാണ് അതിനാൽ അദ്ദേഹം എങ്ങനെയാണ് റെസിസ്റ്ററുകൾ ചേർത്തതെന്ന് വീണ്ടും നോക്കാം നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മധ്യഭാഗ ഡെപ്ത് പരിഗണിക്കാത്തപ്പോൾ ഉള്ള ഈ ശ്രേണിയിലെ ഒരു കണക്ഷനാണ് ഇത് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിസ്റ്ററുകളെ ബന്ധിപ്പിക്കാൻ കഴിയും റെസിസ്റ്ററുകൾ ഇതുപോലെയാണെന്ന് നിങ്ങൾ കാണുന്നു എല്ലാം ശരിയാണ് ഇനി നമുക്ക് കപ്പാസിറ്റർ അളക്കാം അതിനാൽ അവിടെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ മോഡ് ബട്ടൺ ഉപയോഗിച്ച് അത് മാറ്റാൻ കഴിയും ശരിയാണ് നിങ്ങൾക്ക് ഇത് കപ്പാസിറ്റൻസ് മോഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ ഇത് മൈക്രോ അല്ലെങ്കിൽ നാനോ ഫറാഡ് ആണ് നമുക്ക് നോക്കാം നമ്മൾ കാണുന്നത് 9 77 മൈക്രോഫറാഡിനടുത്താണ് ശരിയല്ലേ കപ്പാസിറ്ററിന്റെ മൂല്യം ഏകദേശം 10 മൈക്രോഫറാഡ് ആണ് അതിനാൽ ഇത് അടുത്താണ് 9 77 മൈക്രോ ഫറാഡ് ഇനി നമുക്ക് മറ്റൊരു കപ്പാസിറ്റർ കാണാം സെറാമിക് കപ്പാസിറ്റർ കപ്പാസിറ്ററുകൾ പല തരത്തിലാണ് ഇത് ഈ പ്രത്യേക കോഴ്സിന്റെ വ്യാപ്തിയല്ല പക്ഷേ ഇത് അർദ്ധചാലക ഉപകരണങ്ങളിൽ മറ്റൊരു കോഴ്സിന് കീഴിൽ വരാൻ സാധ്യതയുള്ളതാണ് അവിടെ കപ്പാസിറ്ററിനുള്ളിൽ എന്താണുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇപ്പോൾ നമുക്ക് സെറാമിക് കപ്പാസിറ്റർ നോക്കാം അത് എന്റെ കൈയിലുണ്ട് ഞാൻ വീണ്ടും സീതാറാമിന് നൽകുന്നു അതിനാൽ ഈ സെറാമിക് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എങ്ങനെ അളക്കാമെന്ന് നോക്കാം അയാൾ വീണ്ടും കപ്പാസിറ്റർ ബ്രെഡ്ബോർഡിൽ ചേർക്കുന്നു ശരിയാണ് അവൻ ഒരേ മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹം probe ആയി ബന്ധിപ്പിക്കുമ്പോൾ കപ്പാസിറ്ററിന്റെ മൂല്യം 464 1 നാനോ ഫറാഡിനടുത്തായി കാണാം ശരിയാണ് 461 464 1 നാനോ ഫറാഡ് അടുത്താണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും 2 മൈക്രോഫറാഡ് പരിവർത്തനം ചെയ്യാൻ കഴിയും വളരെ എളുപ്പമാണു് അത് അതിനാൽ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ശരിയാണ് നമുക്ക് ഒരു ഡയോഡ് ഉണ്ടെങ്കിൽ രണ്ട് മൾട്ടിമീറ്ററുകളും ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ കഴിയുമോ ഈ മൾട്ടിമീറ്ററിൽ നിങ്ങൾ കാണുന്നതു എന്താ ഡയോഡിനായി ഒരു ചിഹ്നം ഇവിടെയുണ്ട് എന്റെ വിരൽ ഉള്ളിടത്ത് ഡയോഡ് ഉണ്ട് ഈ പ്രത്യേക മൾട്ടിമീറ്ററിൽ അതേ പോയിന്റിൽ നമുക്ക് ഡയോഡ് അളക്കാൻ കഴിയും അതിനാൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ട പിഎൻ ജംഗ്ഷൻ ഡയോഡ് ഞാൻ അദ്ദേഹത്തിന് നൽകുന്നു ഇപ്പോൾ അദ്ദേഹം പിഎൻ ജംഗ്ഷൻ ഡയോഡിനെ ബ്രെഡ്ബോർഡുമായി ബന്ധിപ്പിക്കുന്നു നമുക്ക് പി എൻ പി എൻ എന്നിവ നോക്കാം ഡയോഡിൽ ഒരു വെള്ളി മോതിരം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും പക്ഷേ നമ്മൾ ഡയോഡ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കണം അതിനാൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ മൈക്രോയിൽ നിന്ന് 603 ആയ മൾട്ടിമീറ്ററിലേക്ക് നോക്കുന്നു ഇത് മഞ്ഞ നിറമാണ് ഏത് ആനോഡ് ആണെന്ന് നമുക്ക് നോക്കാം ഇത് കാഥോഡ് ആണ് നമുക്ക് കുറച്ച് മൂല്യം കാണാൻ കഴിയുമോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് അതെ ശെരിയാണ് നമ്മൾ എന്താണ് ബന്ധിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ഡയോഡാണ് നമ്മൾ അതിനെ ആനോഡിലേക്ക് പോസിറ്റീവ് ആയി ബന്ധിപ്പിക്കുകയും നെഗറ്റീവ് കാഥോഡിന് അതായത് കാഥോട് ഗ്രൌണ്ട് ചെയ്യുന്നു നമ്മൾ probe മാറ്റുകയാണെങ്കിൽ മാത്രമേ ഈ മൂല്യം കാണൂ അതായത് മൂല്യം മാറ്റുകയാണെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ആനോഡിലേക്ക് ഗ്രൌണ്ട് ചെയ്യിക്കും കാഥോഡിലേക്കുള്ള പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല ഇതിൽ എന്തെങ്കിലും കാണാൻ കഴിയുമോ അതിനാൽ ഏതാണ് കാഥോഡ് ഏതാണ് ആനോഡ് എന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഇത് വീണ്ടും ശരിയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കാഥോഡിലേക്കു ഗ്രൌണ്ട് ചെയ്യുകയും പോസിറ്റീവ് ആനോഡിലേക്കും ബന്ധിപ്പിക്കുന്നു നമുക്ക് പെട്ടെന്ന് മാറ്റം കാണാൻ കഴിയും അതിനാൽ ഡയോഡ് ആനോഡ് അല്ലെങ്കിൽ ഡയോഡ് കാഥോഡ് ആണെന്ന് തിരിച്ചറിയാൻ ഇത് വളരെ എളുപ്പമാണ് അതേ രീതിയിൽ ഈ പ്രത്യേക മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഡയോഡ് അളക്കുന്നു അതിനാൽ വീണ്ടും മോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അത് ഡയോഡിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ് ഡയോഡിന്റെ ചിഹ്നവും ഇവിടെയുണ്ട് അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക മഞ്ഞ കളർ ബട്ടൺ മോഡ് അമർത്തുമ്പോൾ ഇവിടെ മാറ്റം കാണും അത് ഇപ്പോൾ ഡയോഡാണ് പോസിറ്റീവ് ആനോഡിലേക്കും ground കാഥോഡിലേക്കും ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് വോൾട്ടേജ് കിട്ടുന്നു ഇത് ആനോഡ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എളുപ്പമാണോ നിങ്ങൾ വിപരീത കാര്യം ചെയ്താൽ നമ്മൾക്ക് ഒന്നും ശരിയായി കാണാൻ കഴിയില്ല എളുപ്പമാണോ അതിനാൽ നമ്മൾ ഇവിടെ കണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഡയോഡ് കണ്ടു പിന്നെ നമ്മൾ റെസിസ്റ്റർ കണ്ടു നമ്മൾ വലിയ കപ്പാസിറ്റർ കണ്ടു ഇപ്പോൾ ഇത് വളരെ മനോഹരമായി കാണപ്പെടുന്നു കാരണം നിങ്ങൾ ചെറുത് മുതൽ വലുത് വരെ കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഡയോഡും അല്പം വലുതാണ് കാരണം അദ്ദേഹം ഘടകങ്ങൾ നന്നായി സ്ഥാപിച്ചിരിക്കുന്നു ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ ആയ മറ്റൊന്ന് നോക്കാം അതിനാൽ ട്രാൻസിസ്റ്റർ എൻപിഎൻ ആണോ അതോ ട്രാൻസിസ്റ്റർ പിഎൻപിയാണോ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ മൾട്ടിമീറ്ററിൽ നോക്കുക നമ്മൾക്ക് ഇവിടെ ട്രാൻസിസ്റ്റർ അളക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനവുമില്ല നമുക്ക് നേരിട്ട് ട്രാൻസിസ്റ്റർ സ്ഥാപിക്കാനും ഇത് NPN അല്ലെങ്കിൽ പിഎൻപിയാണോ എന്ന് അറിയാനും കഴിയും ഇത് HFE ആയ ഈ പ്രത്യേക മോഡിൽ സൂക്ഷിക്കുക ഞാൻ നിങ്ങളോട് അവസാന തവണയും പറഞ്ഞു ഒന്നും ഇല്ല പക്ഷേ അത് എൻപിഎൻ അല്ലെങ്കിൽ പിഎൻപിയാണോ എന്ന് നമ്മൾക്ക് അളക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ എന്റെ കൈയിൽ പിടിച്ചിരിക്കുന്ന ഒന്ന് അവൻ അത് തിരുകും അവൻ ചെയ്യും നമുക്ക് ഡിസ്പ്ലേ കാണാനും കഴിയും ഇത് എൻപിഎൻ അല്ലെങ്കിൽ പിഎൻപി ട്രാൻസിസ്റ്ററാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ആരംഭിക്കുന്നതിന് അദ്ദേഹം ഇത് എൻപിഎനിൽ സ്ഥാപിക്കുന്നു കൂടാതെ 145 131 0 7 എന്ന മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുന്നു അദ്ദേഹം ഇത് പിഎൻപി ഭാഗത്ത് സൂക്ഷിച്ചാൽ എങ്ങനെ ഉണ്ടാകും അതിനാൽ മൾട്ടിമീറ്ററിൽ തന്നെ എൻപിഎൻ പിഎൻപി നിങ്ങൾ ശരിയായി ബന്ധിപ്പിക്കണം അതിനാൽ നിങ്ങൾ ഇത് പിഎൻപിയുമായി ബന്ധിപ്പിക്കുമ്പോൾ മാറ്റമില്ല ഇത് പിഎൻപി വശമാണെന്ന് നിങ്ങൾ കാണുന്നു അദ്ദേഹം ഈ കാര്യം സൂക്ഷിച്ചു പിഎൻപിയിലെ ട്രാൻസിസ്റ്റർ മുമ്പ് എൻപിഎനിൽ സ്ഥാപിച്ചു അവൻ എൻപിഎനിൽ സ്ഥാപിക്കുമ്പോൾ ചില മൂല്യങ്ങളിൽ മാറ്റം അയാൾക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ നിങ്ങൾ പിഎൻപി എച്ച്എഫ്ഇ കാണുമ്പോൾ മാറ്റമൊന്നുമില്ല അതായത് ഇത് പിഎൻപി ട്രാൻസിസ്റ്റർ അല്ലെന്നും ഇത് ഒരു എൻപിഎൻ ട്രാൻസിസ്റ്ററാണ് എന്നും ആണ് കാണിക്കുന്നത് നമുക്ക് മറ്റൊരു ട്രാൻസിസ്റ്റർ കാണാം ഇത് എങ്ങനെയുണ്ട് ഞാൻ അത് അദ്ദേഹത്തിന് നൽകുന്നു ഇത് മറ്റൊരു ട്രാൻസിസ്റ്ററാണ് അതിനാൽ ഇത് വീണ്ടും എൻപിഎൻ ആയി നിലനിർത്താൻ ശ്രമിക്കുകയാണ് ആദ്യം എൻപിഎൻ ഉപയോഗിച്ച് ശ്രമിക്കാം നിങ്ങൾ കാണുന്നതുപോലെ ഒരു മാറ്റവുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണാൻ കഴിയുമോ ഒരു മാറ്റവുമില്ല ശരിയാണ് അതിനാൽ അതിനർത്ഥം ഈ ട്രാൻസിസ്റ്റർ ഒരു എൻപിഎൻ അല്ല അത് പിഎൻപിയാണോ നമുക്ക് നോക്കാം ഒരു മാറ്റമുണ്ട് അതിനാൽ ഇത് എൻപിഎൻ അല്ലെങ്കിൽ പിഎൻപി ആണോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് ശരിയാണോ അതിനാൽ നമ്മൾ എന്താണ് കണ്ടത് വിഭിന്ന ഘടകങ്ങളെ മനസിലാക്കാൻ മൾട്ടിമീറ്ററിന്റെ പങ്ക് നമ്മൾ കണ്ടു എസി വോൾട്ടേജ് അളക്കാൻ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാമോ അതെ അത് അവിടെയുണ്ട് കാരണം നമ്മൾക്ക് ഒരു knob ഉള്ളതിനാൽ ഇവിടെയുള്ള ഈ പ്രത്യേക മൂല്യവുമായി ബന്ധിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ട്രാൻസിസ്റ്റർ പുറത്തെടുക്കാം ശരി ഇപ്പോൾ നമുക്ക് ഇത് എസിയിൽ വെച്ചു നോക്കാം കൂടാതെ നമുക്ക് ഇത് എസിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് മനസിലാക്കാൻ നമുക്ക് വേരിയബിൾ എസി അല്ലെങ്കിൽ വേരിയാക്ക് എന്ന മറ്റൊരു ഉപകരണം ആവശ്യമുണ്ടോ എന്ന് മനസിലാക്കാം അതിനാൽ ഇപ്പോൾ എന്നോടൊപ്പം പഴയ വേരിയാക്ക് ഉണ്ട് ഞാൻ അത് ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പരസ്പരം മുകളിൽ ആയിട്ടു ഒരു ഘടകം സ്ഥാപിക്കരുത് ഇത് ഒരു സർക്യൂട്ട് അല്ല ഇത് ഇങ്ങനെയല്ല നിങ്ങൾക്ക് ഇത് ഇതുപോലെ സ്ഥാപിക്കാൻ കഴിയും ശരിയാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് ഘടകങ്ങൾ പരസ്പരം മുകളിൽ ആയിട്ടു സ്ഥാപിക്കരുത് ഇത് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു തെറ്റായ മാർഗമാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതിനുള്ള തെറ്റായ മാർഗമാണ് ഇത് എല്ലായ്പ്പോഴും ഓർമ്മിക്കുക നിങ്ങൾ പരീക്ഷണം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ടേബിൾ വൃത്തിയായിരിക്കണം നിങ്ങൾ പരീക്ഷണം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ടേബിൾ വൃത്തിയായിരിക്കണം ഒരു ലബോറട്ടറിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ മനസിലാക്കണം അതിനെ നല്ല ലബോറട്ടറി പ്രാക്ടീസ് എന്ന് വിളിക്കുന്നു ലാബിൽ എങ്ങനെ പ്രവേശിക്കാം ബാഗ് എവിടെ സൂക്ഷിക്കണം ഘടകങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം ഉപകരണങ്ങൾ എങ്ങനെ സ്ഥാപിക്കണം അങ്ങനെ എല്ലാം വളരെ പ്രധാനമാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അതിൽ വയ്ക്കരുത് അതിനടുത്തായി നമ്മൾ സ്ഥാപിക്കുന്നു ഇത് വളരെ ഭാരമുള്ളതാണ് ശരിയാണ് കാരണം ഒരു ട്രാൻസ്ഫോർമർ ഹെവി ആണ് ഇപ്പോൾ നമ്മൾ ഇത് വൈദ്യുതി വിതരണവുമായി ബന്ധിപ്പിക്കുന്നു നമ്മൾക്ക് വൈദ്യുതി വിതരണ സ്വിച്ച് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടേജ് 0 ൽ നിന്ന് 230 വോൾട്ടിലേക്ക് മാറ്റാൻ കഴിയും അത് എവിടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇത് വൈദ്യുതി വിതരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് 230 വോൾട്ട് എസിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ശരിയാണ് ഇപ്പോൾ ഈ രണ്ട് ടെർമിനലിലുടനീളമുള്ള വോൾട്ടേജ് എന്താണ് ഈ രണ്ട് ടെർമിനലിലുടനീളമുള്ള വോൾട്ടേജ് എന്താണെന്ന് എനിക്ക് കണക്കാക്കണമെങ്കിൽ എനിക്ക് വീണ്ടും ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാം ഏതെങ്കിലും മൾട്ടിമീറ്റർ അതിനാൽ ഇവിടെ ഒരു മൾട്ടിമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ സീതാറാമിന് എന്തെങ്കിലും വോൾട്ടേജ് ലഭിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം ശരി നമുക്ക് നോക്കാം അതിനാൽ അവൻ ചുവപ്പും കറുപ്പും ബന്ധിപ്പിക്കുന്നു ശരിയാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലും കണക്റ്റുചെയ്യാൻ കഴിയും കാരണം ഇത് എസി ആണ് നിങ്ങൾക്ക് ഏതുവിധേനയും കണക്റ്റുചെയ്യാനാകും എന്നത് പ്രശ്നമല്ല നിങ്ങൾ മാറ്റം കാണും തുടർന്ന് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണക്റ്റുചെയ്യാൻ കഴിയും അതിനാൽ എന്റെ കൈയിൽ നിങ്ങൾ എന്താണ് കാണുന്നത് ഇവിടെ ഏകദേശം 19 4 ആണ് ഞാൻ 20തിനടുത്തു വെച്ചു ഞാൻ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് എന്താണ് നമുക്ക് എസി വോൾട്ടേജ് വ്യത്യാസപ്പെടുത്താം അതിനാലാണ് ഇതിനെ വേരിയാക്ക് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് വോൾട്ടേജ് മാറ്റാൻ കഴിയും ഞാൻ വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയാണ് അതിനനുസരിച്ച് എന്റെ മൾട്ടിമീറ്ററിൽ വോൾട്ടേജിന്റെ വർദ്ധനവ് എനിക്ക് കാണാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക വേരിയക്കിന്റെ output വോൾട്ടേജ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം ശരിയല്ലേ നമ്മൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം അതേപോലെ തന്നെ ഞാൻ കുറക്കുന്നത് തുടരുകയാണെങ്കിൽ അത് താഴേക്ക് വരും അത് അത് ഇപ്പോഴും താഴേക്ക് വരും അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ആവൃത്തി എന്താണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഇത് കണക്റ്റുചെയ്യാനും prob ബന്ധിപ്പിക്കാനും കഴിയും എന്നതാണ് മറ്റൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് വോൾട്ടേജ് കാണാൻ കഴിയും ഇത് നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ഇത് കണക്റ്റുചെയ്യാം ഇത് ഇവിടെ ബന്ധിപ്പിക്കുക ഇത് എനിക്ക് പിടിക്കാൻ കഴിയും അതിനാൽ വീണ്ടും അദ്ദേഹം ഈ മൾട്ടിമീറ്ററിനെ ബന്ധിപ്പിക്കുന്നു ശരിയാണ് ഇത് എസി മോഡിലാണ് നമുക്ക് മാറ്റം കാണാൻ കഴിയും ശരിയാണ് നമുക്ക് മാറ്റം കാണാൻ കഴിയും ഞാൻ വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയാണ് ഞാൻ വീണ്ടും 105 120 134 138 146 വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ഞാൻ അത് താഴേക്ക് കൊണ്ടുവരുന്നു അതിനാൽ അത് താഴേക്ക് വരുന്നു ശരിയാണ് ഏതാണ്ട് 0 ലേക്ക് തിരികെ വരുന്നു കാരണം ഇപ്പോൾ വോൾട്ടേജ് ഇല്ല അതിനാൽ പോയിന്റ് 0 അല്ലെങ്കിൽ 52 മില്ലിവോൾട്ടുകൾക്ക് അടുത്താണ് അതിനാൽ ഇങ്ങനെയാണ് നമുക്ക് വോൾട്ടേജ് അളക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എസി വോൾട്ടേജ് അളക്കുന്നത് ഇപ്പോൾ എനിക്ക് ആവൃത്തി അളക്കാൻ കഴിയുമോ അതിനാൽ ഇവിടെ ആവൃത്തിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആവൃത്തി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇത് ആവൃത്തിയുടെ ഒരു മോഡാണ് ഇപ്പോൾ അദ്ദേഹം ഇത് വീണ്ടും അതേതിലേക്ക് ബന്ധിപ്പിക്കും ഇത് 230 വോൾട്ട് ആണ് ആവൃത്തി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഇവിടെ കാണുന്നത് 49 85 49 86 50 ഹെർട്സിനടുത്ത് ആണ് 50 ഹെർട്സിനടുത്ത് പരീക്ഷണത്തിന്റെ ഗണത്തിൽ നമുക്ക് അളക്കാൻ കഴിയും എന്നതാണ് കാര്യം നിങ്ങൾ അത് ഉപയോഗിച്ചതിന് ശേഷം ഉടൻ തന്നെ പവർ ഓഫ് ചെയ്യണം മറ്റ് ഭാഗങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് പവർ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഫലങ്ങൾ ലോക്ക് ചെയ്യുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പവർ ഓഫ് ചെയ്യുക എന്നതാണ് അതിനാൽ ഞാൻ പവർ ഓഫ് ചെയ്യുന്നു ഞാൻ അത് മുഴുവൻ പുറത്തെടുക്കുന്നു ഇത് ശരിയായി ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ ഇത് ചെയ്തു നിങ്ങൾ ഇങ്ങനെയാണ് പുറത്തെടുക്കേണ്ടത് ഇത് കണക്റ്റുചെയ്തിരിക്കരുത് എനിക്ക് അത് ആവശ്യമില്ല ഞാൻ അത് വിച്ഛേദിച്ചു എല്ലായ്പ്പോഴും സുരക്ഷിതമായിരിക്കുക സുരക്ഷ വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങളുടെ നല്ല ലബോറട്ടറി പരിശീലനങ്ങളുടെ ഒരു ഭാഗം വീണ്ടും നോക്കുക മൾട്ടിമീറ്ററും നിരവധി കാര്യങ്ങൾ അളക്കുന്നതിനുള്ള മൾട്ടിമീറ്ററിന്റെ പങ്കും നമ്മൾ വ്യത്യസ്ത ഉപകരണങ്ങളിൽ കണ്ടു ട്രാൻസിസ്റ്ററുകൾ പിഎൻപിഎൻപിഎൻ ട്രാൻസിസ്റ്ററുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വരിയാക് ഉപയോഗിച്ചുള്ള വോൾട്ടേജ് കണ്ടു കൂടാതെ നമ്മൾ ആവൃത്തിയും കണ്ടു ഇപ്പോൾ ഇത് 49 86 എന്നതിന് അടുത്തായിരുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇന്ത്യയിൽ നമ്മൾ വോൾട്ടേജ് അളക്കുകയാണെങ്കിൽ വോൾട്ടേജ് സിംഗിൾ ഫേസ് 230 വോൾട്ട് ആയിരിക്കും ആവൃത്തി 50 ഹെർട്സ് ആയിരിക്കും എന്നിരുന്നാലും നിങ്ങൾ ചില രാജ്യങ്ങളിലേക്ക് പോയാൽ 110 വോൾട്ട് വരുന്ന വോൾട്ടേജും നിങ്ങൾ കാണും എന്നാൽ അതിൽ ആവൃത്തി എന്താണ് ആവൃത്തി 60 ഹെർട്സ് ആണ് 110 വോൾട്ട് 60 ഹെർട്സ് 230 വോൾട്ട് 50 ഹെർട്സ് എന്നിങ്ങനെയും ആണ് അതിനാൽ 110 ആണോ മികച്ചത് അതോ 230 വോൾട്ട് ആണോ മികച്ചത് എന്നതും മറ്റൊരു വിഷയമാണ് എന്നതാണ് കാര്യം പക്ഷേ നിങ്ങൾ നമ്മളുടെ വീട്ടിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ജ്യൂസർ അല്ലെങ്കിൽ ട്രിമ്മർ അതിന് രണ്ട് വോൾട്ടേജുകളിലും പ്രവർത്തിക്കുവാൻ കഴിയും ഞാൻ യുഎസിലേക്ക് പോയാൽ എനിക്ക് 110 വോൾട്ട് 60 ഹെർട്സ് ഉപയോഗിക്കാം ഇന്ത്യയിൽ വന്നാൽ എനിക്ക് 230 വോൾട്ട് 50 ഹെർട്സ് ഉപയോഗിക്കാം അതിനാൽ അതൊരു പ്രത്യേക പ്രശ്നമാണ് അതിനുള്ളിലുള്ളത് രണ്ട് വോൾട്ടേജുകളിലും ആവൃത്തിയിലും പ്രവർത്തിക്കാൻ കഴിയുന്നത് ആണ് ഇവിടെയുള്ള കാര്യം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വോൾട്ടേജ് അളക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവൃത്തി അളക്കാൻ കഴിയുമോ അതെ എന്നതാണ് ഉത്തരം നിങ്ങൾക്ക് പ്രതിരോധം അളക്കാൻ കഴിയുമോ അതെ കപ്പാസിറ്റൻസ് അതെ ശരിയല്ലേ എൻപിഎൻ പിഎൻപി അതെ ഡിസി വോൾട്ടേജ് അതെ ഡിസി കറൻറ് അതെ എസി വോൾട്ടേജ് അതെ എസി കറൻറ് അതെ അതിനാൽ നിങ്ങൾ ധാരാളം പറയുമ്പോൾ അതെ എന്നത് നല്ലതായി തോന്നുന്നു പക്ഷേ പോയിന്റ് മൾട്ടിമീറ്ററിന് എല്ലാം പരിഹരിക്കാൻ കഴിയില്ല ഇത് നിങ്ങൾക്ക് DC വൈദ്യുതി നൽകുമോ അതിന് നൽകാൻ കഴിയില്ല ശരിയാണ് മൾട്ടിമീറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു മറ്റൊരു കാര്യമുണ്ട് അതിനാൽ ഞാൻ ഒരു വോൾട്ടേജ് നൽകാൻ തുടങ്ങിയാൽ ചില വോൾട്ടേജിൽ സ്ഥിരമായ വൈദ്യുതധാരയുണ്ട് അവിടെ സ്ഥിരമായ വോൾട്ടേജ് ഉണ്ട് ശരിയാണ് മൾട്ടിമീറ്ററിനുള്ളിലുള്ളത് എന്താണ് ഒരു ബാറ്ററിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ശരിയാണ് നിങ്ങൾ ചില മൾട്ടിമീറ്ററുകളിൽ 9 വോൾട്ട് ബാറ്ററി കാണുന്നു ചില മൾട്ടിമീറ്ററിൽ കാണുകയാണെങ്കിൽ അത് വ്യത്യസ്തമാണ് മൾട്ടിമീറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ഓപ്പറേറ്റിംഗ് സംവിധാനം എന്താണ് അതിനാൽ നിങ്ങൾ പഠിക്കേണ്ടതും ഇതുതന്നെയാണ് എന്റെ ഒന്നാം ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാം നിങ്ങളോട് പറയാൻ ഇൻസ്ട്രക്ടറെ ആശ്രയിക്കരുത് എന്ന് ചേരുവകൾ നിങ്ങളോട് പറയാൻ ഇൻസ്ട്രക്ടർ ഉണ്ട് ഒരു തവണ ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം നിങ്ങളെ കാണിക്കും എല്ലാ സമയത്തും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടിവരുമ്പോൾ ഓരോ തവണയും നിങ്ങൾ പര്യവേക്ഷണം ചെയ്യണം ഘടകങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്ത് ചേർക്കണമെന്നും ഒക്കെ അല്ലേ അതേ സമയം നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് സുരക്ഷയാണ് ശരി നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാം ശരിയായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നു അതിനാൽ നമ്മൾ ഈ പ്രത്യേക മൊഡ്യൂൾ ഇന്നു നിർത്തും അടുത്ത സെറ്റ് മൊഡ്യൂളുകളിൽ ഡിസി വൈദ്യുതി വിതരണത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ കാണും അതിനാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു ഡിസി വൈദ്യുതി വിതരണമാണ് ഞാൻ ഇത് നീക്കംചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും എന്താണ് ഒരു ഡിസി വൈദ്യുതി വിതരണം എന്ന് ഇവിടെയും ഒരു ഡിസി വൈദ്യുതി വിതരണം ഉണ്ട് അതിനാൽ അടുത്തതായി ഞാൻ പറഞ്ഞ മൊഡ്യൂളിൽ ഡിസി വൈദ്യുതി വിതരണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണണം കൂടാതെ ഡിസി വൈദ്യുതി വിതരണം ഏതാണ് വേരിയബിൾ ഡിസി അല്ലെങ്കിൽ അത് ഒരു സ്ഥിരമാണ് ഇനിപ്പറയുന്ന മൊഡ്യൂളുകളിൽ ഫംഗ്ഷൻ ജനറേറ്റർ പോലുള്ള വ്യത്യസ്ത ഉപകരണങ്ങളും നമ്മൾ കാണും നിങ്ങൾ ഓസിലോസ്കോപ്പ് കാണും ചില ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അനലോഗ് പരീക്ഷണങ്ങൾക്ക് വ്യത്യസ്ത പരീക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിനോ ഈ ഉപകരണങ്ങളെല്ലാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കും ഉദാഹരണമായി നിങ്ങൾക്ക് അളവ് ചെയ്യാൻ കഴിയും വിപരീത ആംപ്ലിഫയർ എങ്ങനെ പ്രവർത്തിക്കുന്നു വിപരീതമല്ലാത്ത ആംപ്ലിഫയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അതിനാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഉപകരണം ഉപയോഗിക്കണം ഈ ഉപകരണം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ഉപകരണത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാൽ അടുത്ത കൂട്ടം മൊഡ്യൂളുകൾ ഉപകരണങ്ങൾ മനസിലാക്കുക എന്നതാണ് തുടർന്ന് നമ്മൾ ഈ ഉപകരണം ഉപയോഗിക്കുകയും നിങ്ങളുടെ ഇൻഡിക്കേറ്റർ സർക്യൂട്ടുകൾക്കൊപ്പം പ്രത്യേക ഘടകങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥ പരീക്ഷണങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും എല്ലാം ശരിയല്ലേ